പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ആദ്യ ആഴ്ചയിലെ രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് സ്വാഗതം ഈ ചർച്ചയിൽ നമ്മൾ പ്രോക്സിമിക്സ് എന്താണെന്നു കാണുകയും അതിനെ വിശകലനം ചെയ്ത് പ്രോക്സിമിക്സ്ന്റെ നാല് അടിസ്ഥാന മേഖലകളെ പറ്റി മനസ്സിലാക്കുകയും ചെയ്യും വാച്യേതര ആശയവിനിമയത്തിന്റെ ഒരു വിഭാഗമായ പ്രോക്സിമിറ്റി ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരോടുള്ള നമ്മുടെ മാനഭാവത്തിന്റെ മാറ്റം വ്യക്തമാകുന്നു നമ്മൾ അവരിൽ നിന്നും ഒരു നിശ്ചിത അകലം പാലിക്കാൻ ആഗ്രഹിക്കുന്നോ അതോ നമ്മുടെ ബന്ധം വളരെ ആയാസം ഉള്ളതാണോ എന്ന് ഒരു ഗ്രൂപ്പിൽ ആയിരിക്കുമ്പോൾ നമ്മൾ ഏത് അംഗവുമായാണ് ഏറ്റവും സുഗമമായി ഇടപഴകുന്നതെന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാകും രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണത്തിൽ നമുക്ക് അടുത്ത് പരിചയമുള്ള ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ അവരോടു കൂടുതൽ ചേർന്ന് ഇരിക്കും ഇത് ഒരു ഉപരിപ്ലവമായ വ്യാഖ്യാനമാണെങ്കിലും ഇതാണ് ഏറ്റവും പ്രചാരത്തിലുള്ളത് ഈ വരകളിലും ചിത്രങ്ങളിലും വ്യത്യസ്ത തരത്തിലുള്ള പ്രോക്സിമിക്സ് കാണുവാൻ സാധിക്കും രണ്ടു പേർ ഒരു ബെഞ്ചിൽ ഇരിക്കുന്ന ഫോട്ടോഗ്രാഫിൽ നോക്കിയാൽ അവർ തമ്മിലുള്ള മനഃപൂർവം സൃഷ്ടിച്ച അകലo കാണുമ്പൊൾ അവർ തമ്മിൽ ഊഷ്മളമായ ഒരു ബന്ധമല്ല ഉള്ളത് എന്ന് കാണുവാൻ സാധിക്കും സ്വതന്ത്ര വ്യക്തികൾ എന്ന നിലയിലുള്ള അവരുടെ വ്യത്യസ്ത മനോഭാവങ്ങളും അവരുടെ ശരീര ഭാഷയിൽ നിന്ന് മനസിലാക്കാം ഈ ചിത്രങ്ങളിലും നമുക്ക് കാണാം നമ്മൾ മറ്റുള്ളവരുമായി പാലിക്കുന്ന ശാരീരിക അകലത്തിൽ നിന്നും നമുക്ക് അവരോടുള്ള മനോഭാവം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇടതുവശത്തുള്ള ചിത്രങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത് എങ്ങനെ ഒരു ഇടം ഭയപ്പെടുത്താൻ ഉപയോഗിക്കാം എന്നാണ് രണ്ടു പേർ തമ്മിലുള്ള സംഭാഷണത്തിൽ ആരാണ് കൂടുതൽ പ്രതിരോധത്തിലും ആരാണ് കൂടുതൽ കോപത്തിലും നിലകൊള്ളുന്നത് എന്നും അറിയാൻ കഴിയും ഇതേപോലെ തന്നെ വലതു വശത്തുള്ള ചിത്രങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അനായാസമായും അകലം പാലിച്ചും വ്യക്തികൾ എങ്ങിനെ ഇടപെടുന്നു എന്നാണ് ഈ ചിത്രങ്ങളെ താഴെയുള്ള മൂന്ന് പേർ ഇരിക്കുന്ന ചിത്രവുമായി ചേർത്തുവച്ച് നോക്കുക രണ്ടു പേർ വളരെ അടുത്തും മൂന്നാമൻ അകന്നും നില്ക്കുന്നു ഇയാളുടെ മറ്റു ചില ശരീര ഭാഷയിൽ നിന്നു കൂടി ഈ അകലം വ്യക്തമാണ് പ്രോക്സിമിക്സ് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത് സാംസ്കാരിക നരവംശ ശാസ്ത്രജ്ഞനായ എഡ്വേഡ് ടി ഹാൾ എന്ന പുസ്തകത്തിലാണ് ഹിഡൻ ഡൈമെൻഷൻ എന്നാൽ ആരും ഇത് വരെ ചർച്ച ചെയ്യാത്ത ഒരു മാനം ആണ് ഈ പുസ്തകത്തിൽ സ്പേസിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ കുറിച്ചും വ്യക്തികളുടെ ഇടയിലുള്ള സ്പേസിന്റെ ഉപയോഗത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാന സിദ്ധാന്തo പ്രതിപാദിക്കുന്നു ലിംഗ്വിസ്റ്റിക് സ്ട്രക്ച്ചറലിസവും സ്വന്തം പ്രയോഗിക ഗവേഷണവും തമ്മിലുള്ള ബന്ധം ഇതിൽ സൂചിപ്പിക്കുന്നു സംസ്കാരത്തിൽ ആശ്രയിച്ചു കൊണ്ട് ആളുകൾ തങ്ങളുടെ ഇടയിലെ സ്പേസ് ഉപയോഗിച്ചു ആശയങ്ങളും ബന്ധങ്ങളും എങ്ങിനെ മനസിലാക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു എഡ്വേഡ് ഹാലിനേ സംബന്ധിച്ചിടത്തോളം പ്രോക്സിമിക്സ് എന്നത് സ്പേസും സൂക്ഷ്മ സ്പേസും രൂപീകരിക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് നമ്മൾ ദൈനംദിനം മറ്റുള്ളവരുമായി സൂക്ഷിക്കുന്ന അകലം വീടുകൾക്കുള്ളിലുള്ള സ്ഥല ക്രമീകരണം കെട്ടിടങ്ങൾക്കുള്ളിലെയും സിറ്റികളിലെയും സ്ഥലം എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു ഇതെല്ലാം പ്രോക്സിമിക്സിൽ വരും പ്രോക്സിമിക്സ് മനുഷ്യർക്കിടയിൽ സൂക്ഷിക്കുന്ന അകലത്തെപ്പറ്റിയുള്ള പഠനം മാത്രമല്ല മറിച്ച് നമ്മുടെ മറ്റു അനുഭവ തലങ്ങളിൽ സ്പേസിന്റെ നിർമാണവും അതിന്റെ രൂപീകരണവും കൂടിയാണ് വീടുകളുടെ നിർമാണം അവയ്ക്കുള്ളിലുള്ള ഇടത്തിന്റെ ക്രമീകരണം കെട്ടിടത്തിന്റെയും ഇന്റീരിയർ ഡെക്കറേഷന്റെയും സഹായത്തോടെയുള്ള ഓഫീസ് സ്പേസ് നിർമാണം തുടങ്ങി പലതിലും പ്രോക്സിമിക്സ് ഉണ്ടെന്നു കാണാം വീടുകളിൽ ഓഫീസുകളിൽ കെട്ടിടങ്ങളിൽ നഗരാസൂത്രണത്തിൽ അത് പോലെ നഗര നവീകരണത്തിൽ ഒക്കെ സ്പേസിന്റെ ക്രമീകരണം എന്നത് മൈക്രോ സ്പേസിന്റെ അത്ര പ്രകടമല്ലാത്ത ഒരു രൂപീകരണം തന്നെയാണ് എഡ്വേഡ് ഹാൾ സ്പേസിനെ കാണുന്നത് സംസ്കാരത്തിന്റെ ഒരു സവിശേഷ വിപുലീകരണമായാണ് പ്രോക്സിമിക്സ് എന്ന ആശയം മനസ്സിലാക്കാൻ വേണ്ടി ഒരു അദൃശ്യ കുമിളക്കുള്ളിലൂടെ നടക്കുന്നതായി സങ്കൽപ്പിക്കുക നമ്മൾ നടക്കുമ്പോഴോ നിൽക്കുമ്പോഴോ ഈ കുമിളക്കുള്ളിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ സ്പേസ് ഉപയോഗിക്കുന്നു ഏന്ന് മാത്രമല്ല ഈ അദൃശ്യ കുമിളയെ നമ്മൾ നമ്മുടെ ശരീര ഭാഗം ആയി തന്നെ കാണുന്നു നമുക്ക് ഈ ദൃഷ്ടാന്തത്തെ തിരക്കുള്ള ഒരു സ്ഥലത്തെ സ്വഭാവo ലിഫ്റ്റിൽ ട്രെയിനിൽ ഓഫീസിലെയും ലഘുഭക്ഷണ ശാലകളിലെയും ഇരിപ്പിട ക്രമീകരണങ്ങളിൽ ഒരു തിരക്കുള്ള ഇടത്തിൽ നമ്മുടെ ഇരിപ്പിടത്തിന്റെ തിരഞ്ഞെടുപ്പിൽ എല്ലാത്തിലും പ്രയോഗിക്കാം അദൃശ്യ കുമിളയുടെ ആശയം മറ്റൊന്നുമല്ല നമ്മളെ ഈ അദൃശ്യ കുമിള ചുറ്റപ്പെട്ടിരിക്കുമ്പോൾ മറ്റാരും അതിനുള്ളിലേക്ക് കടക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല പൊതുവിൽ അനുവദിക്കുകയുമില്ല ആരെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഈ അദൃശ്യ കുമിളക്കുള്ളിൽ കയറിയാൽ നമ്മൾ ഭയചകിതരാകും നമ്മൾ നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെ മാത്രമേ ഈ അദൃശ്യ കുമിളക്കുള്ളിൽ അനുവദിക്കൂ ഏത് സംസ്കാരമോ ലിംഗമോ ആകട്ടെ ആരെങ്കിലും ഈ അദൃശ്യ കുമിളക്കുള്ളിൽ അതിക്രമിച്ചു കയറിയാൽ അവരെ എതിർക്കാനുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മൾ കുറെ അപരിചിതരുടെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒറ്റക്കല്ല ഒരു സുരക്ഷിതമായ അദൃശ്യ കുമിളക്കുള്ളിലാണ് എന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും ഉദാഹരണത്തിന് ലിഫ്റ്റുകളിൽ നമ്മൾ ചില സാധനങ്ങളിലേക്ക് നോക്കും ചിലരുടെ കണ്ണുകളിൽ നോക്കും ലിഫ്റ്റ് ബട്ടണുകളിലേക്ക് നോക്കും നിലവിൽ ഏത് നിലയിലാണെന്ന് സൂചിപ്പിക്കുന്ന സ്ക്രീനിലേക്ക് നോക്കും നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് നോക്കും പക്ഷെ നമ്മൾ മറ്റുള്ളവരുമായി കണ്ണിലേക്കുള്ള നോട്ടം ഒഴിവാക്കും ഇതൊക്കെ തെളിയിക്കുന്നത് നമ്മുടെ അദൃശ്യ കുമിള എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കാറുണ്ടെന്നാണ് ഇത് തന്നെയാണ് നമ്മൾ ഒരു ട്രെയിനിലോ അപരിചിതർ നമ്മളുമായി സ്പേസ് പങ്കുവക്കുന്ന പൊതു വാഹനത്തിലോ യാത്ര ചെയ്യുമ്പോഴും ഉണ്ടാകുന്നത് നമ്മൾ മറ്റുള്ളവരുമായി അടുപ്പം ആഗ്രഹിക്കുന്നില്ല എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശരീരഭാഷ നമുക്കുണ്ടാകും പ്രോക്സിമിക്സ് മറ്റുള്ളവരുമായി നമ്മൾ സൂക്ഷിക്കുന്ന ആനുപാതികമായ അകലത്തിൽ നിന്നുണ്ടാകുന്നു പ്രോക്സിമിക്സ് സ്വഭാവങ്ങൾ സ്പേഷ്യൽ ബന്ധങ്ങൾ പല സംസ്കാരങ്ങളിലെ പ്രാദേശികമായ പ്രതിഭാസങ്ങൾ അല്ലെങ്കിൽ ഒരേ സംസ്കാരത്തിൽ പല സാമൂഹിക സാഹചര്യങ്ങൾ എന്നിവയെ വിശകലനം ചെയ്യുന്നു പ്രോക്സിമിക്സ്നെ കുറിച്ചുള്ള നമ്മുടെ പഠനം നമുടെ ബന്ധങ്ങളിലെ സുഖവും ക്ലേശവും മനസിലാക്കാൻ സഹായിക്കുന്നു നമ്മൾ ഒരാളോട് അടുത്തിരിക്കുന്നെങ്കിൽ അത് നല്ല ബന്ധത്തിന്റെ ലക്ഷണം ആകാം എന്നാൽ അകന്നിരിക്കുന്നത് നീരസത്തിന്റെയോ പേടിയുടെയോ ലക്ഷണം ആകാം ഒരാളുടെ ശക്തി ഉപയോഗിച്ച് അയാൾ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് അതിക്രമിച്ചു കയറുന്നതും കാണാം പോലീസുകാർ ചെയ്യുന്നത് പോലെ അതെ സമയം അധികാരം വെളിപ്പെടുത്താൻ ഒരാൾ വലിയ അകലം പാലിക്കുന്നതും കാണാം അത്കൊണ്ട് അകലത്തിന്റെ ഈ തീവ്രത അധികാരത്തിന്റെയും അധികാരമില്ലായ്മയെയും പല രീതികളിൽ പ്രകടിപ്പിക്കുന്നു പ്രോക്സിമിക്സ് അടുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ നാല് മണ്ഡലങ്ങളായി തിരിക്കാം ദൃഢബന്ധം അഥവാ ഇന്റിമേറ്റ് വ്യക്തിപരം അഥവാ പേർസണൽ സാമൂഹികം അഥവാ സോഷ്യൽ പൊതുവായത് അഥവാ പബ്ലിക് എന്നിവയാണ് അത് ഈ നാലു വിഭാഗങ്ങളും അവയുടെ അകലങ്ങളും ഇങ്ങനെയാണ് ഇന്റിമേറ്റ് സോൺ ഇന്റിമേറ്റ് സോണിൽ ഏറ്റവും അടുത്ത ദൂരം 18 ഇഞ്ച് ആണ് ആശ്വസിപ്പിക്കാനും സ്വകാര്യം പറയാനും ഉള്ള അകലം ഇതിൽ കുടുംബത്തെയും അടുത്ത സുഹൃത്തുക്കളെയും പെടുത്താം വ്യക്തിപരമായ സോൺ പതിനെട്ടു ഇഞ്ചു തൊട്ടു നാലു അടി വരെയാണ് ഇത് സുഹൃത്തുക്കളും ബന്ധുക്കളുമായുള്ള അനൌദ്യോഗിക സംസാരത്തിന് ഉപയോഗിക്കുന്നു ഇതാണ് നമ്മുടെ ദൈനംദിന തൊഴിൽ മേഖലകളിൽ ഉപയോഗിക്കുന്നത് സാമൂഹിക സോൺ ഔപചാരിക സാമൂഹ്യ വ്യവസായിക ഇടപാടുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിനുപരി ഉള്ള എല്ലാ ദൂരങ്ങളും പബ്ലിക് സോൺ ആണ് പൊതുവായ പ്രസംഗങ്ങൾ അവതരണങ്ങൾ എന്നിവയെല്ലാം ഈ സോണിൽ ആണ് ഇതെല്ലം കർക്കശ നിയമങ്ങൾ അല്ല ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോ സാഹചര്യത്തിലും വരുമെങ്കിലും പൊതുവായെടുക്കുന്ന ഒരു അളവുകോൽ ഇതാണ് ഇന്റിമേറ്റ് സോൺ സൂചിപ്പിക്കുന്നത് മാനസിക അടുപ്പമുള്ള രണ്ടു പേരെയാണ് അവർ അവരുടെ അദൃശ്യ കുമിളകൾ കൂട്ടികലർത്തുന്നു ഈ അകലം മറ്റാരെങ്കിലും മുറിച്ചാൽ നമുക്ക് അസ്വസ്ഥതയും ഭയവുമുണ്ടാകും അപ്പോൾ തന്നെ നമ്മൾ ഒരടി പുറകോട്ട് വച്ച് ആ അകലം കൂട്ടാൻ ശ്രമിക്കാറുണ്ട് കായിക മേഖലയിൽ സ്ഥിതി വ്യതസ്തമാണ് ഉദാഹരണത്തിന് ഗുസ്തി മത്സരത്തിൽ വല്യ ശാരീരിക അടുപ്പം നിർബന്ധമാണ് ഇന്റിമേറ്റ് സ്പേസിന്റെ പവിത്രത സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം അതിലേക്കുള്ള ആക്രമണം നമ്മെ പരിഭ്രാന്തരാക്കിയേക്കാം ശബ്ദത്തിന്റെയും സ്പര്ശത്തിന്റെയും പ്രസക്തി ഈ സോണിൽ കൂടുതലാണ് അതെ സമയം ഇസ്പേസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ ഏതറ്റം വരെ ആരെയൊക്കെ ഇതിലേക്കു അനുവദിക്കാം എന്നുള്ളത് സാംസ്കാരികമായ ഒരു ഘടകം കൂടിയാണ് ഈ വീഡിയോയിൽ നമ്മുടെ സ്വകാര്യ അകലത്തെ തീരുമാനിക്കുന്ന സാംസ്കാരിക ഘടകങ്ങൾ ഏതൊക്കെ എന്ന് നോക്കാo എല്ലാവർക്കും അവനവന്റെ സ്വകാര്യ ഇടംസ്പേസ് ആവശ്യമാണ് സാഹചര്യങ്ങളും ചുറ്റുപാടുo അനുസരിച്ച് ഇത് മാറും അനുവാദത്തോടെ ചെയ്തില്ലെങ്കിൽ മാനസിക വ്യഥയും ഉണ്ടാക്കും എങ്ങനെയാണ് ആളുകൾ വർദ്ധിച്ച സമ്മർദ്ദത്തിനും ഒറ്റപ്പെടലിനും ഇടയിലുള്ള സന്തുലിത കാത്ത് സൂക്ഷിക്കുന്നത് റോബർട്ട് സോമ്മറുടെ അഭിപ്രായത്തിൽ മറ്റുള്ളവരുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വ്യക്തികൾ പല തരം സ്വഭാവരീതികൾ വികസിപ്പിക്കുന്നു സ്വകാര്യ ഇടം അഥവാ പേർസണൽ സ്പേസ് എന്നാൽ എന്താണ് ഉദേശിക്കുന്നത് ഇത് ഒരാളുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഇടം ആണ് ഒരു അദൃശ്യ സോൺ ആണ് ഈ ഇടം മറ്റൊരാൾ ലംഘിക്കുന്നതും കൂടുതൽ അടുക്കുന്നതും ഭയം ജനിപ്പിക്കുന്നു എഡ്വേഡ് ഹാളിന്റെ പഠനത്തിൽ പല സംസ്കാരങ്ങളിലും സ്ഥിരമായ ചില പേർസണൽ സോണുകളെ കുറിച്ച അദ്ദേഹം പറയുന്നു ഒന്ന് ഇന്റിമേറ്റ് സോൺ അഥവാ ദൃഢ ബന്ധം 0 18 ഇഞ്ചിനുള്ളിൽ ഉള്ള ബന്ധം പേർസണൽ ഡിസ്റ്റൻസ് സോൺ അഥവാ സ്വകാര്യ അകലം ഒന്നര അടി മുതൽ നാല് അടി വരെയുള്ള അകലത്തിലുള്ള ബന്ധങ്ങൾ സോഷ്യൽ ഡിസ്റ്റൻസ് അഥവാ സാമൂഹിക അകലം 4 അടി 12 അടിക്കുള്ളിൽ പബ്ലിക് ഡിസ്റ്റൻസ് അഥവാ പൊതു അകലം അതായത് പ്രസംഗപീഠത്തിൽ നിൽക്കുന്ന പ്രാസംഗികനും ശ്രോതാവും തമ്മിലുള്ള ദൂരം ഇതിനു ഒരു ഉദാഹരണം ആക്കാം അപ്പോൾ ഇതാണ് പേർസണൽ സോണിന്റെ നാല് തലങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ ശ്രോതാവാണെങ്കിൽ ഞാൻ നിങ്ങളുടെ പബ്ലിക് സ്പേസിൽ ആണ് ഇനി എനിക്ക് നിങ്ങളുടെ പ്രഭാഷണത്തിൽ മതിപ്പു തോന്നി ഞാൻ നിങ്ങളുമായി ഒരു സംഭാഷണത്തിൽ ഏർപെടുകയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ സോഷ്യൽ സ്പേസിൽ ആണ് എന്നാൽ വെറും പരിചയക്കാരി മാത്രമായ ഞാൻ നിങ്ങളുടെ വളരെ അടുത്ത കെട്ടിപിടിക്കാവുന്ന അകലത്തിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ പേടിക്കുകയോ അവഹേളിക്കപെട്ടതായി തോന്നുകയോ ചെയ്യാം അപ്പോൾ ഞാൻ നിങ്ങളുടെ ഇന്റിമേറ്റ് സ്പേസിൽ പ്രവേശിച്ചിരിക്കുന്നു സ്വകാര്യ സ്പേസിലെ വ്യവഹാരങ്ങൾക് 8 തലങ്ങളുണ്ട് ശബ്ദത്തിന്റെ ഒച്ച ശരീര ഊഷ്മാവ് നോട്ടം ഗന്ധം സ്പർശം ലൈംഗിക അവസ്ഥ ശാരീരിക അവസ്ഥ കൂടാതെ ആ സ്പേസ് നല്ല വ്യവഹാരം അനുവദിക്കുന്നൂ എന്നും എനിക്ക് മെട്രോപൊളിറ്റൻ മ്യൂസിയം ഓഫ് ആർട്ടിൽ ജോലി ചെയുന്ന ഒരു സുഹൃത്തുണ്ട് ആരും കാണാതെ അതിനുളിലൂടെ ഒന്ന് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് താത്പര്യമുണ്ടോ ശരിക്കും നിങ്ങൾക്കതിന് പറ്റുമോ ഈസിയായിട്ട് പ്രശ്നമാകുമോ ഒരിക്കലുമില്ല നമുക്ക് എപ്പോൾ പോകാം ഇപ്പോഴയാലോ ഞാൻ റെഡി ഉറപ്പാണോ അതെ ഞാൻ എന്റെ കോട്ട് എടുക്കട്ടേ നിങ്ങൾ എന്ത് പറയുന്നു നടക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് വേറെ പദ്ധതികൾ ഉണ്ട് ജെറി നീയോ ക്ഷമിക്കു സാധ്യമല്ല ഓക്കേ അടുത്ത് വരൂ പിന്നീട് ഒരിക്കൽ ശ്രമിക്കാം 2009 ൽ നേച്ചറിൽ വന്ന ഒരു പഠനം അനുസരിച് ഈ അദൃശ്യ കുമിള മനുഷ്യ മസ്തിഷ്കത്തിലെ അമിഗ്ദല യെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇത് നമ്മുടെ ആക്രമണ സ്വഭാവം പേടി സാമൂഹിക ഇടപെടലുകൾ എന്നിവയെ നിയന്ത്രിക്കുന്നു അമിഗ്ദലക്ക് പരിക്ക് പറ്റിയാൽ ആളുകൾക്കു അവരുടെ സ്വകാര്യ ഇടത്തെ കുറിച്ചുള്ള ധാരണ നഷ്ടപ്പെട്ടേക്കാം കൌമാരപ്രായത്തിൽ ഈ കുമിള ഉറക്കുന്നു ഇത് സംസ്കാരത്തെ വളരെ അധികം ആശ്രയിച്ചിരിക്കുന്നു പൊതു ഗതാഗതം ഉപയോഗിക്കുന്ന യൂ എസ് പോലുള്ള നഗരപ്രദേശങ്ങളിലെ സ്വകാര്യ ഇടത്തെ കുറിച്ചുള്ള ധാരണ കാർ മാത്രം ഉപയോഗിക്കുന്ന ഒരു റഷ്യൻ ഗ്രാമത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കും കൂടാതെ ഈ രണ്ടു രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസo പറയേണ്ടല്ലോ അടുത്ത സോൺ നമ്മുടെ സ്വകാര്യ ഇടം ആണ് ഇത് 18 48 ഇഞ്ച് ആണ് ഇതാണ് നമ്മൾ സാധാരണ തൊഴിൽ ഇടങ്ങളിൽ ഓഫീസിൽ പാർട്ടികളിൽ സാമൂഹിക കൂടിച്ചേരലുകൾ എന്നിവിടങ്ങളിൽ പാലിക്കുന്ന അകലം ദൈനംദിന ഇടപെടലുകളിൽ പരസ്പരം അദൃശ്യ കുമിളകൾ അക്രമിക്കപെടാതെ നമ്മെ സംരക്ഷിക്കുന്ന ബഫർ ആണ് ഇത് ഇടപെടലുകളിൽ ഈ സ്പേസ് കൂട്ടിയും കുറച്ചും നമ്മൾ ബന്ധങ്ങളുടെ ആഴത്തിനെ കുറിച്ചുള്ള സിഗ്നലുകൾ അയച്ചുകൊണ്ടിരിക്കുന്നു ഈ അകലം വളർന്നും ശുഷ്കിച്ചും കൊണ്ടേ ഇരിക്കുന്നു മാത്രമല്ല ഇതിന്റെ വ്യാപ്തി ഒരാളോടുള്ള നമ്മുടെ മനോഭാവം വെളിപ്പെടുത്തുന്നു വീണ്ടും ഈ ഫോട്ടോഗ്രാഫ് ശ്രദ്ധിച്ചാൽ രണ്ടു പേര് തമ്മിൽ നല്ല അടുപ്പവും മൂന്നാമൻ വല്യ അകലം പാലിക്കുന്നതും കാണാം ഇതിൽ നിന്നും ആ രണ്ടു പേർ തമ്മിൽ സുഗമമായ ബന്ധവും എന്നാൽ മൂന്നാമത്തെ വ്യക്തിയുമായി അസ്വസ്ഥമായ ബന്ധവും ആണ് പുലർത്തുന്നതെന്നു മനസിലാക്കാം മുഴുവൻ അർത്ഥവും മനസിലാക്കാൻ നമ്മൾ സന്ദർഭംപശ്ചാത്തലം പഠിക്കേണ്ടിയിരിക്കുന്നു എന്നാൽ ഇവരുടെ പ്രോക്സിമിക്സ് സിഗ്നലുകൾ തിരിച്ചറിഞ്ഞാൽ ഇത് മനസിലാക്കാം സ്വകാര്യ സ്പേസിൽ ഒരാൾക്കു മറ്റൊരാളെ പിടിക്കുകയോ തൊടുകയോ ഒക്കെ ആകാo ഫാർ സ്പേസ് ചർച്ച ചെയുന്നത് ഇതാണ് നമുക്ക് പരസ്പരം ഇഷ്ടമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്ന സ്പേസ് ഈ വിഡിയോയിൽ പേർസണൽ സ്പേസിനെ കുറിച്ചുള്ള ആശയം വ്യക്തമാകും പൊതു ഇടങ്ങളിൽ പാലിക്കേണ്ട അകലത്തെ കുറിച്ച് വിദഗ്ധന്മാർ പറയുന്നത് വ്യക്തികൾ തങ്ങളുടെ ഇടയിൽ 2 അടി അല്ലെങ്കിൽ 24 ഇഞ്ച് അകലം സൂക്ഷിക്കണം എന്നാണ് നിങ്ങൾക് ഇത് സുഖമായി തോന്നുന്നുണ്ടോ സുഹൃത്തേ അതെ കൊള്ളാം ഇതാണോ നിങ്ങൾക്ക് ശീലം ആളുകൾ എന്നോട് വളരെ അടുത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല വളരെ അടുത്ത ദമ്പതിമാരെ പോലെ ഇത് വളരെ അടുത്താണോ ഇത് വളരെ അടുത്താണോ ഇത് വളരെ അടുത്താണോ ഇത് ആവശ്യത്തിന് അടുത്താണ് നമുക്കെല്ലാം ഒരു ലിഫ്റ്റ് എലിവേറ്റർ ഉപയോഗിക്കുന്നതിന്റെ അലിഖിത നിയമങ്ങൾ അറിയാം ഏറ്റവും തിരക്ക് കുറഞ്ഞ ഭാഗത്തു മുൻപോട്ട് നോക്കി മിണ്ടാതെ നിൽക്കണം എന്നാൽ നമ്മൾ ഈ നിയമങ്ങൾ തെറ്റിച്ചാൽ എന്ത് സംഭവിക്കും ഞങ്ങൾ ഒരു ലിഫ്റ്റിന്റെ നിരീക്ഷണ കാമറ ഉപയോഗിച്ച് നോക്കി ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിട്ടും ഞാൻ മറ്റുള്ളവരോട് വളരെ ചേർന്ന് നില്ക്കാൻ ശ്രമിച്ചു മിക്കവരും മാറി നിന്നു ഒരാൾ ഞെട്ടി എന്നാൽ കുറെ പേർ അനങ്ങാതെ നിന്നു ഒരു സ്ത്രീയുടെ നേരെ മുന്നിൽ ചെന്ന് ചേർന്നു നിന്നു എന്നാൽ അവർ അനങ്ങിയില്ല അവർ സംയമനം പാലിച്ചേനെ എന്നാൽ അവർക്കു എന്തോ തോന്നി ഒരു നിമിഷം എനിക്ക് നിങ്ങളെ അടിക്കാനോ തള്ളണോ പിടിച്ചു മാറ്റാനോ തോന്നി നിങ്ങൾ അങ്ങനെ ചെയ്യാത്തത് നന്നായി ഭാഗ്യത്തിന് ഒരു ശരാശരി ലിഫ്റ്റ് യാത്ര വെറും 30 സെക്കന്റ് ഉള്ളു അടുത്തത് ബസ് ആണ് ബസിൽ നിങ്ങൾ ഒഴിഞ്ഞ മറ്റു യാത്രക്കാരിൽ നിന്നും മാറിയുള്ള സീറ്റിൽ ഇരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ദിവസം തിരക്കൊഴിഞ്ഞ ബസിൽ ഒരു ഒളി ക്യാമറയുമായി ഞങ്ങൾ കയറി ഞാൻ ആളുകളുടെ ക്ഷമ പരീക്ഷിക്കാൻ തീരുമാനിച്ചു ഞാൻ അകത്തേക്ക് കയറിക്കോട്ടെ എവിടെ ഇവിടെയോ അതെ എന്തിനിവിടെ നിങ്ങൾക് അവിടെ ഇരുന്നു കൂടെ ആ സ്ത്രീ തൊട്ടടുത്ത സീറ്റ് ചൂണ്ടി കാണിച്ചപ്പോൾ മറ്റൊരാൾക്കു ഞാൻ അടുത്തിരിക്കുന്നതിനോട് ഒരെതിർപ്പും ഇല്ലായിരുന്നു അപ്പോൾ സ്വകാര്യ സ്പേസിനെ കുറിച്ച് നിങ്ങളുടെ പൊതുവായ നിർദേശം എന്താണ് ഏക്സ്ക്യൂസ് മി മിസ് ഞങ്ങൾ കണ്ടുമുട്ടിയ എല്ലാവരും സമ്മതിക്കും എങ്ങനെ വളരെ അടുത്തു വരുന്നവരെ ചെറുക്കാം എന്ന് പരിചയമില്ലാത്തവർ വളരെ അടുത്തേക്കു വരുമ്പോഴോ പുറകിലേക്കു നീങ്ങാo അകലം സൂക്ഷിക്കാം എന്നാൽ ഞങ്ങളുടെ ഈ ചെറിയ അശാസ്ത്രീയ പരീക്ഷണം മറ്റൊന്ന് കൂടി വെളിപ്പെടുത്തി ലിഫ്റ്റ് പോലുള്ള ചെറിയ സ്പേസുകളിൽ ആളുകൾ തങ്ങളുടെ പ്രദേശം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ തുറസ്സായ വിസ്താരമുള്ള ഇടങ്ങളിൽ പാർക്ക് പോലെ ആളുകൾ അനങ്ങുന്നേയില്ല ഒരു സ്ത്രീ ഞങ്ങളോട് സംസാരിക്കാൻ വരെ തുനിഞ്ഞു എന്തൊക്കെയുണ്ട് കാരണം ചിലപ്പോൾ നല്ല സൌഹൃദങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇടം ഉണ്ടാക്കുന്നത് നല്ലതാണ് മൂന്നാമത്തേത് സാമൂഹിക മണ്ഡലം അല്ലെങ്കിൽ സോഷ്യൽ സോൺ ആണ് ഏകദേശം 4 മുതൽ 12 അടി വരെ ഇത് നമ്മൾ അപരിചിതരുമായി അല്ലെങ്കിൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരുമായി പാലിക്കുന്ന അകലം ആണ് ഇവിടെ ആണ് നമ്മുടെ ശരീരത്തിന്റെ കായിക നീക്കങ്ങൾ കനീസിക്സ് തലം പ്രസക്തമാകുന്നത് കാരണം ഈ അകലത്തിൽ മുഘഭാവങ്ങൾ ചിലപ്പോൾ വളരെ വ്യക്തമാകില്ല തൊടാനും സാധ്യമല്ല ഇങ്ങനെ ഉള്ള ഇടങ്ങൾ ഓഫീസ് സ്പേസുകളിൽ ചില പ്രത്യേക ജോലികൾക്കായി നീക്കി വയ്ക്കുന്നു ഉദാഹരണത്തിന് ബില്ലിംഗ് ചെയ്യുന്ന സ്ഥലം റിസെപ്ഷനിസ്റ്ന്റെ മേശ തുടങ്ങി ചിലത് ഇവിടെ കനീസിക്സ് തലങ്ങൾ പ്രധാനം ആണ് കൂടാതെ ശബ്ദം ഉയർത്തി സംസാരിക്കണം അതെ സമയം മറ്റൊരാളുടെ സാനിധ്യത്തിൽ നിശബ്ദമായി ജോലി ചെയ്യാനും സഹായിക്കും നാലാമത്തെ സോൺ ആണ് പബ്ലിക് അല്ലെങ്കിൽ പൊതു ഇടം അതായത് 12 അടിക്ക് ഉപരി എല്ലാം ഒരു വല്യ ആൾക്കൂട്ടത്തോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു അവതരണം ചെയ്യുമ്പോഴോ നമ്മൾ ഈ സോണിൽ ആണ് മറ്റു മൂന്ന് സോണുകളിലും വ്യക്തിത്വം വളരെ പ്രസക്തമാണ് എന്നാൽ ഇവിടെ വക്താവിന്റെ ഐഡന്റിറ്റി പ്രസക്തമാണെങ്കിലും പ്രേക്ഷകരുടെ ഐഡന്റിറ്റി അത്ര പ്രസക്തമല്ല അവർ വ്യക്തികളായി പ്രതികരിക്കുന്നില്ല നമ്മൾ വളരെ ഔപചാരികമായി വാക്കുകളും വാക്യങ്ങളും ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തു സംസാരിക്കുന്നു ഒരു ഔപചാരിക അകലം നമ്മുടെ ഭാഷയിലും ശരീര ഭാഷയിലും കടന്നു കൂടുന്നു നമ്മുടെ ശബ്ദം ആംഗ്യങ്ങൾ എല്ലാം കൂടുതൽ ആശയ വിനിമയത്തിന് ഉതകുന്നു ഇത് നമ്മുടെ ഇന്റിമേറ്റ് സോണിൽ നിന്നും വ്യത്യസ്തമാണ് പ്രധാനപ്പെട്ട പൊതു വ്യക്തികളുടെ ചുറ്റും തീർക്കുന്ന സുരക്ഷാവലയo ഈ ഫാർ സോൺ അല്ലെങ്കിൽ വിദൂര ഘട്ടത്തിൻറെ പരിധിയിൽ വരും അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിലും തൊഴിൽ മേഖലയിലും പ്രോക്സിമിക്സിന്റെ ഫലം എന്തൊക്കെയാണ് സ്വകാര്യ ഇടം വളരെ വിലയേറിയതാണ് തിരക്കുള്ള ഇടങ്ങളിൽ ശരീരിക പെരുമാറ്റത്തിൽ നമ്മൾ അറിയാതെ ചില മാറ്റങ്ങൾ വരാം ഉദാഹരണത്തിന് നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുന്ന സാഹചര്യം അനുസരിച്ച് നമ്മൾ നോട്ടം മാറ്റിയേക്കാം മുഖം ആവേശഭരിതമാകാം അല്ലെങ്കിൽ കഠിന ഭാവം ആകാം എന്നാൽ നമ്മൾ മറ്റുള്ളവരുടെ സ്വകാര്യ സ്പേസിലേക് ഇടിച്ചു കയറിയാൽ നമ്മൾ മോശക്കാരായി ചിത്രീകരിക്കപ്പെടാം സ്പേസ് സജ്ജീകരിക്കുന്നതിൽ പ്രോക്സിമിക്സിന്റെ സ്വാധീനം വളരെ വലുതാണ് ഇത് അടുത്ത ലെക്ചറിൽ ചർച്ച ചെയാം പലപ്പോഴും റെസ്റ്റോറെന്റുകളിലും ഓഫീസുകളിലും മനോഹരമായി ഇടം തിരിച്ചിരിക്കുന്നത് കാണാം എല്ലാവരും പെരുമാറുന്ന ഇടമാണെങ്കിൽ കൂടി ചില കൃത്രിമമായ അതിരുകൾ ഉപയോഗിച്ച് ആളുകൾ അവരുടെ ഇടം വേർതിരിച്ചു വക്കും ഇതിൽ നിന്നും പൊതുവായ ഒരിടം ആണെങ്കിൽ തന്നെയും അതിൽ ഓരോരുത്തരുടെയും സ്പേസ് വേർതിരിച്ചിരിക്കുന്നതായി വ്യക്തമായി മനസിലാക്കാം സുതാര്യമായ ഒരു പ്രതിബന്ധം ഉപയോഗിച്ച് ദൃശ്യമായ അതിരുകൾ നമ്മൾ സൃഷ്ടിക്ക്കുന്നു അല്ലെങ്കിൽ നമ്മോട് ചേർത്ത് ചില വസ്തുക്കൾ വച്ച് ഈ ഇടം നമ്മുടേതാണെന്നു പ്രഖ്യാപിക്കാൻ ശ്രമിക്കുന്നു ഇത് ചിലപ്പോൾ അറിയാതെയും എന്നാൽ മറ്റു ചിലപ്പോൾ മനഃപൂർവ്വവും ചെയ്യാം ഉദാഹരണത്തിന് ചില ആളുകൾ സ്വന്തം ചുവരുകൾ വളരെ അധികം അലങ്കരിക്കുന്നത് കാണാം ഇതവരുടെ സ്പേസ് ആണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണിത് പ്രോക്സിമിക്സിന്റെ ഈ സ്വാധീനം നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും ഈ വീഡിയോ ശ്രദ്ധിച്ചാൽ അയാളുടെ മുഖത്തെ വ്യംഗ്യാർത്ഥം ഫ്രാൻസ് കുറച്ചു കൂടി ജനത്തിരക്കുള്ള ഒരു സമൂഹമാണ് അതുകൊണ്ടു തന്നെ അവർ അടുത്തിടപഴകുന്നു ജർമനിക്കാർ ഈ ദൂരത്തെ വളരെ കർക്കശമായി പാലിക്കുന്നു അമേരിയ്ക്കയിൽ ഒരാളുടെ ഒരു കാലെങ്കിലും വീടിനു പുറത്താണെങ്കിൽ അയാൾ തന്റെ തലയോ മറ്റേതെങ്കിലും ശരീര ഭാഗമോ വീടിനകത്തേക്ക് നീട്ടിയാൽ അത് കടന്നു കയറ്റമായി കരുതില്ല അത്തരം പെരുമാറ്റങ്ങൾ ജർമൻകാരെ ഞെട്ടിക്കുന്നു അവരത് കടന്നുകയറ്റം ആയി കാണുന്നു എന്നാൽ അമേരിക്കക്കാർ വാതിൽ അടച്ചിടുന്നത് ബഹിഷ്ക്കരണമായി കണക്കാക്കുന്നു പാശ്ചാത്യ നാടുകളിൽ തന്നെ ഇത്തരം വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ പശ്ചിമേഷ്യൻ നാടുകളും അമേരിക്കൻ ഐക്യനാടുകളും തമ്മിലുള്ള വ്യത്യാസം പറയേണ്ടതില്ലലോ പശ്ചിമേഷ്യൻ നാടുകളിലെ പൊതു ഇടങ്ങൾ വളരെ തിരക്കുള്ളവയായിരിക്കും ശാരീരിക സ്പർശനവും പൊതു ഇടങ്ങളും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ കൂടുതലാണ് അമേരിയ്ക്കയിൽ പൊതു ഇടങ്ങളിൽ പോലും സ്വകാര്യത സംരക്ഷിക്കാനായി പരസ്പര അകലം പാലിക്കുന്നെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പൊതു ഇടങ്ങൾ യഥാർത്ഥത്തിൽ പൊതു ഇടങ്ങൾ ആണ് അവിടെ വ്യക്തിക്ക് സ്വകാര്യ ഇടത്തിന് അവകാശമില്ല സ്വകാര്യ ഇടത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണ തൊഴിലിടങ്ങളിലെ വ്യവഹാരങ്ങളിലും